IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയിലെ ഈ കോഴ്സിന്റെ ഈ പ്രത്യേക മൊഡ്യൂൾ വിശകലനത്തിലും ഡാറ്റാ മാനേജ്മെന്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രത്യേകിച്ചും ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ലഭിച്ച ഡാറ്റ എങ്ങനെ വിശകലനം ചെയ്യാമെന്നതിന്റെ ചില ആമുഖ ആശയങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു മുൻ പ്രഭാഷണങ്ങളിൽ IIoT അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ ധാരാളം ഡാറ്റ സൃഷ്ടിക്കുന്നതായി ഞങ്ങൾ കണ്ടു കൂടാതെ ഈ ഡാറ്റയിൽ ചിലത് എത്രയും വേഗം അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ ജനറേഷൻ പോയിന്റിലേക്ക് പ്രോസസ്സ് ചെയ്യേണ്ടിവരും ശേഷിക്കുന്ന ഡാറ്റ പിന്നീടുള്ള ഘട്ടത്തിൽ കൂടുതൽ പ്രോസസ്സിംഗിനായി അയയ്ക്കാം പക്ഷേ ഡാറ്റയുടെ വിശകലനം വളരെ പ്രധാനമാണ് അല്ലാത്തപക്ഷം ഈ വ്യത്യസ്ത വ്യാവസായിക യന്ത്രങ്ങളെ മികച്ചതാക്കാൻ വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല അതിനാൽ ഞാൻ ഉന്നിപ്പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശകലനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അതിനാൽ അവസാന ഉപകരണങ്ങൾ അന്തിമ ഉപകരണങ്ങൾ മുതലായവയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പുനരവലോകനത്തിലൂടെ നമുക്ക് ആദ്യം ആരംഭിക്കാം ഈ അന്തിമ ഉപകരണങ്ങളിൽ വ്യത്യസ്ത സ്മാർട്ട് സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഈ സ്മാർട്ട് സെൻസറുകൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നു അവ ഡാറ്റ സൃഷ്ടിക്കാൻ പോകുന്നു അതിനാൽ സെൻസറുകൾക്ക് പകരം നമ്മൾ അതിനെ സെൻസിംഗ് എന്ന് വിളിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉചിതമാകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഞങ്ങൾ സെൻസിംഗ് ഘട്ടത്തിൽ ആരംഭിക്കുന്നു സെൻസിംഗിൽ നിന്ന് ഞങ്ങൾ ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ അയയ്ക്കണം അതിനാൽ ഞാൻ അതിനെ കണക്റ്റിവിറ്റി എന്ന് വിളിക്കട്ടെ അതിനാൽ കണക്റ്റിവിറ്റിയുടെയും മുൻ മൊഡ്യൂളിലെയും കണക്റ്റിവിറ്റിയുടെ വ്യത്യസ്ത സാധ്യതകളെക്കുറിച്ച് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം ആശയവിനിമയ പ്രോട്ടോക്കോളുകൾ നെറ്റ്വർക്ക് ടോപ്പോളജികളെക്കുറിച്ചും മറ്റും സംസാരിക്കുന്നു അതിനുശേഷം നെറ്റ്വർക്കിലൂടെ അയയ്ക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ടിവരും അതായത് കമ്പ്യൂട്ടിംഗ് കൂടാതെ മിക്ക വ്യാവസായിക ആപ്ലിക്കേഷനുകളിലും ഈ പ്രോസസ്സിംഗ് അടിസ്ഥാനമാക്കി ഡാറ്റയുടെ ഉത്ഭവത്തിന്റെ ഉറവിടത്തിലേക്ക് സിഗ്നലുകൾ നൽകുന്നതിന് ഒരു ഫീഡ്ബാക്ക് നിയന്ത്രണം സൃഷ്ടിക്കേണ്ടതുണ്ട് അതായത് ഈ യന്ത്രങ്ങൾ സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു യഥാർത്ഥ വ്യാവസായിക പശ്ചാത്തലത്തിൽ തുടർച്ചയായി നടപ്പിലാക്കുന്ന ഒരു വളയമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഇതുപോലെ പോകുന്നു അത് സെൻസിംഗിൽ ആരംഭിക്കുന്നു സെൻസിംഗ് കണക്റ്റിവിറ്റി പ്രോസസ്സിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഇവിടെ മിക്ക കേസുകളിലും ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ട് പ്രത്യേകിച്ച് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾക്ക് ഈ നിയന്ത്രണ ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന വ്യാവസായിക മേഖലകളിൽ മിക്കതും ഐഐഒടിക്കായുള്ള വ്യവസായ ഉപകരണങ്ങൾ സിപിഎസ് ഉപകരണങ്ങളാണ് അതിനാൽ അടിസ്ഥാനപരമായി എവിടെയാണ് സൈബർ ഘടകവും ശാരീരിക ഘടകവും തമ്മിലുള്ള ധാരാളം ഇടപെടലുകൾ അതിനാൽ ഈ നിയന്ത്രണം വളരെ പ്രധാനമാണ് ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടിംഗ് ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം ഇവിടെയാണ് കാര്യങ്ങൾ വളരെ രസകരം അതിനാൽ ഞങ്ങൾ വിശകലനങ്ങളെക്കുറിച്ചും ഡാറ്റയുടെ മാനേജ്മെന്റിനെക്കുറിച്ചും സംസാരിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഇപ്പോൾ തിരിച്ചുപോയി നമുക്ക് IIoT സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശകലനങ്ങളുടെ കാര്യത്തിൽ എന്താണുള്ളതെന്ന് നോക്കാം അതിനാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു വ്യാവസായിക ക്രമീകരണമുണ്ട് ഞങ്ങൾക്ക് വ്യാവസായിക ആസ്തികളും വ്യത്യസ്ത യന്ത്രങ്ങളുമുണ്ട് ഉദാഹരണത്തിന് സ്മാർട്ട് നിർമ്മാണമുള്ള ഒരു സ്മാർട്ട് ഫാക്ടറിയിൽ അതിനർത്ഥം ഉപകരണങ്ങൾ തന്നെ വ്യത്യസ്ത സ്മാർട്ട് സെൻസറുകളും മറ്റും ഘടിപ്പിച്ചിരിക്കുന്നു ഈ യന്ത്രത്തിൽ നിന്ന് വ്യത്യസ്ത തരം ഡാറ്റയിൽ നിന്നുള്ള ഡാറ്റ തുടർച്ചയായി ആക്സസ് ചെയ്യുന്നു അതിനാൽ ഈ വ്യാവസായിക ആസ്തികളും യന്ത്രങ്ങളും വ്യത്യസ്ത സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക നെറ്റ്വർക്കിലെ ഡാറ്റ കൂടുതൽ പ്രോസസ്സിംഗിനായി അയയ്ക്കാൻ പോകുന്നു ഡാറ്റ വിശകലനം ചെയ്യാൻ പോകുന്നു ഇത് എങ്ങനെയാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപകരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചാണ് നമ്മൾ ഈ പ്രത്യേക മൊഡ്യൂളിലും ഈ പ്രത്യേക പ്രഭാഷണത്തിലും സംസാരിക്കാൻ പോകുന്നത് വിശാലമായ വ്യത്യസ്ത രീതികളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു വിശകലനത്തിനായി അവിടെയുണ്ട് അതിനാൽ ഈ വിശകലനത്തിന്റെ ഉദ്ദേശ്യം പുതിയ ഉൾക്കാഴ്ചകളും ബുദ്ധിശക്തിയും സൃഷ്ടിക്കുക എന്നതാണ് ഇത് സിസ്റ്റങ്ങളുടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെയും ബിസിനസിന്റെയും കാര്യത്തിൽ സഹായിക്കുന്ന ഈ ബുദ്ധിയാണ് അതിനാൽ മൊത്തത്തിലുള്ള ബിസിനസ് ഇന്റലിജൻസ് എന്നിവ വ്യത്യസ്ത തരം വിശകലനങ്ങളിലൂടെയും ഈ അനലിറ്റിക്സ് എഞ്ചിനുകളിൽ വ്യത്യസ്ത വിശകലന പ്രക്രിയകൾ നടത്തുന്നതിലൂടെയും വളരെ പ്രധാനമാണ് അതിനാൽ ഒടുവിൽ ഈ ഫലങ്ങൾ എല്ലാം ERP അധിഷ്ഠിത സംവിധാനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സ് പ്രക്രിയകൾ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സ് പ്രക്രിയകൾ പോലെയുള്ള മറ്റ് വിവര സംവിധാനങ്ങളിലേക്ക് അയയ്ക്കപ്പെടാം അതിനാൽ ഈ വ്യത്യസ്ത വിശകലനങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ പുതിയ ഉൾക്കാഴ്ചകളും ബുദ്ധിയും ഉപയോഗപ്രദമാകുന്ന വ്യത്യസ്ത സാധ്യതകളാണിവ അതിനാൽ അവയിൽ ഏതെങ്കിലുമൊന്ന് ഫീഡ്ബാക്ക് ചെയ്യാനും ഒപ്റ്റിമൽ തീരുമാനമെടുക്കാനും ബുദ്ധിപൂർവ്വമായ പ്രവർത്തനങ്ങൾ നൽകാനും സഹായിക്കും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കൂടുതൽ ബുദ്ധിശക്തിക്കും മറ്റും ഈ മെഷീനുകളിലൂടെ ആ തീരുമാനങ്ങൾ വീണ്ടും നൽകുന്നു അതിനാൽ അനലിറ്റിക്സ് വളരെയധികം ഉപയോഗങ്ങൾ കണ്ടെത്തുന്ന ഈ ചക്രത്തിൽ കൂടുതലോ കുറവോ ആണ് ഇവിടെ വ്യത്യസ്തമായ വിശകലന രീതികൾ ഉപയോഗിക്കാൻ പോകുന്ന പുതിയ ഉൾക്കാഴ്ചകളും ബുദ്ധിശക്തിയും നേടുക എന്നതാണ് ഇവിടെ പ്രധാന കാര്യം അതിനാൽ IIoT വിശകലനത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിശകലനം അടിസ്ഥാനപരമായി വ്യവസായ 4 0 ന്റെ ഒരു പ്രധാന ഘടകമാണ് ഇൻഡസ്ട്രി 4 0 ൽ നമ്മൾ കണക്റ്റിവിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ കാണുന്നത് കണക്റ്റിവിറ്റി മെഷിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ ഈ അനലിറ്റിക്സ് എന്നിവ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ് ഇപ്പോൾ വിവിധ തരം ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതിന് ഈ വിശകലനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടത്താൻ കഴിയും അനലിറ്റിക്സ് തലമുറയുടെ പോയിന്റിന് അടുത്തായി നടത്താം അതിനർത്ഥം ഗേറ്റ്വേ നോഡിലോ അരികിലോ അല്ലെങ്കിൽ അനലിറ്റിക്സ് പൂർണ്ണമായും പിൻവശത്ത് ക്ലൌഡിൽ സെർവർ സെർവർ സ്ഥാപനം അങ്ങനെ അല്ലെങ്കിൽ രണ്ടും കൂടിച്ചേർന്നേക്കാം അതിനാൽ നമുക്ക് ഈ പ്രത്യേക ഡയഗ്രം നോക്കാം അതിനാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ വ്യത്യസ്ത സെൻസറുകൾ സൃഷ്ടിക്കുന്ന അസംസ്കൃത ഡാറ്റ ഞങ്ങളുടെ പക്കലുണ്ട് ഈ അസംസ്കൃത ഡാറ്റ വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം ഈ അസംസ്കൃത ഡാറ്റയെല്ലാം ഉപയോഗശൂന്യമാകാൻ പോകുന്നു ഡാറ്റയിൽ നിന്ന് അർത്ഥവത്തായ വിവരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാൽ അടിസ്ഥാനപരമായി വ്യത്യസ്തമായ വിശകലനം വ്യവസ്ഥാപിത വിശകലനം ഡാറ്റ അസംസ്കൃത ഡാറ്റയെ വിവരങ്ങളായി പരിവർത്തനം ചെയ്യൽ എന്നിവയിലൂടെ ഡാറ്റയുടെ ഈ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് അത് നിർണായകമാണ് അല്ലാത്തപക്ഷം ഡാറ്റ ഉപയോഗശൂന്യമാകും വ്യാവസായിക പശ്ചാത്തലത്തിൽ പ്രവർത്തന നിലകളും പ്രകടനവും പരിസ്ഥിതിയും മനസ്സിലാക്കാൻ ഈ അർത്ഥവത്തായ വിവരങ്ങൾ ഞങ്ങളെ സഹായിക്കും അതായത് യന്ത്രത്തിന്റെ പ്രവർത്തന നിലകൾ യന്ത്രത്തിന്റെ പ്രകടനവും യന്ത്രം പ്രവർത്തിക്കുന്ന പരിതസ്ഥിതിയും ഇത് സഹായിക്കുന്നു ഈ നിർവ്വഹണത്തിൽ നിന്നോ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിൽ നിന്നോ ഉണ്ടാകുന്ന വ്യത്യസ്ത വിവര പാറ്റേണുകൾ തിരിച്ചറിയാനും ഈ വിവരങ്ങൾ സഹായിക്കുന്നു മൊത്തത്തിൽ ആശയം കാര്യക്ഷമത കുറയ്ക്കുക കൂടാതെ നിർമ്മാണത്തിനും പ്രക്രിയ നിർവ്വഹണത്തിനുമായി കമ്പനിക്ക് വേണ്ടി ഒരു നഗ്നമായ അസ്ഥി തരം സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള പ്രവർത്തന ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് അതിനാൽ മൊത്തത്തിലുള്ള ആശയം എല്ലാത്തരം കാര്യക്ഷമതയില്ലായ്മയും ഉൽപ്പന്നത്തിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയില്ലായ്മയും പ്രക്രിയയും കുറയ്ക്കുന്നതിന് നമുക്ക് വിശകലനം ആവശ്യമാണ് ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനും പ്രവർത്തന കാര്യക്ഷമതയും ചെലവുകളുടെ ചെലവ് കുറയ്ക്കുന്നതിനും ഉപയോഗിക്കുന്ന പ്രക്രിയ വ്യത്യസ്ത സെൻസറുകൾ ഘടിപ്പിച്ച ഈ വ്യത്യസ്ത യന്ത്രങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി ഡാറ്റ ശേഖരിക്കുന്ന തുടക്കത്തിൽ തന്നെ ഞാൻ പ്രസ്താവിച്ച പ്രത്യേക ലൂപ്പിലെ അനലിറ്റിക്സ് ഉപയോഗത്തെ പ്രചോദിപ്പിക്കുന്നതിനായി പരിഗണിക്കപ്പെടുന്ന വ്യത്യസ്ത പരിഗണനകളാണ് ഇവ ഈ IoT ഉപകരണങ്ങളും നെറ്റ്വർക്കിലൂടെ ഡാറ്റ അയയ്ക്കുന്നു അതിനാൽ അനലിറ്റിക്സ് എന്തുകൊണ്ട് പ്രധാനമാണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ ഒരു നല്ല ധാരണയുണ്ടെന്ന് ഞാൻ കരുതുന്നു നടപ്പിലാക്കാൻ കഴിയുന്ന വിവിധ തരം വിശകലനങ്ങളുടെ ഒരു അവലോകനം മനസ്സിലാക്കാനും നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം നമുക്ക് മൂന്നായി തരം തിരിക്കാവുന്ന വിവിധ തരം വിശകലനങ്ങൾ ഉണ്ടാകാം ആദ്യം വിവരണാത്മക വിശകലനം വിവരണാത്മക അനലിറ്റിക്സ് എന്നത് സമയ സമയ സ്കെയിലിലെ വിശകലനമാണ് അതിനാൽ അടിസ്ഥാനപരമായി ലഭിച്ച ഡാറ്റ വിശകലനം ചെയ്യേണ്ടതാണ് കൂടുതൽ ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് നിലവിൽ നടപ്പിലാക്കുന്നതെന്തും മെച്ചപ്പെടുത്തുന്നതിന് ഈ വ്യത്യസ്ത യന്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റയുടെ കൂടുതൽ അർത്ഥം ലഭിക്കുന്നതിന് ഒരു വിവരണാത്മക ആശയം ലഭിക്കാൻ വിവരണാത്മക വിശകലനമാണ് ഇപ്പോൾ നടക്കുന്നത് മറുവശത്ത് പ്രവചനാത്മക വിശകലനം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ വ്യത്യസ്ത ഉപകരണങ്ങളുടെയും സാങ്കേതികതകളുടെയും ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു കാരണം എന്താണ് സംഭവിക്കാൻ സാധ്യതയെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുമെങ്കിൽ ഉദാഹരണത്തിന് ഒരു മെഷീൻ ഘടകത്തിന്റെ ഒരു ഭാഗം താഴേക്ക് പോകാം ഭാവിയിൽ ഒരുപക്ഷേ 1 മണിക്കൂറിന് ശേഷം ആ വിവരം മുൻകൂട്ടി ലഭിച്ചാൽ അത് വളരെ ഉപയോഗപ്രദമാകും കാരണം ആ പ്രത്യേക ഘടകം പൂർണ്ണമായും താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയും തൽഫലമായി പ്രവർത്തിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ യന്ത്രവും സ്വയംഭരണാധികാരമുള്ളതായിരിക്കും പൂർണ്ണമായ പ്രവർത്തന സമയം ശ്രദ്ധിക്കുകയും മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യും അതിനാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കുന്നത് പ്രവചന വിശകലനങ്ങളെക്കുറിച്ചാണ് നിർദ്ദിഷ്ട വിശകലനം അടിസ്ഥാനപരമായി പ്രവചന വിശകലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്നു നിർദ്ദിഷ്ട വിശകലനത്തിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾ പ്രവചിക്കുന്നു എന്നാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ ചെയ്യേണ്ട വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർദ്ദേശിക്കുന്നു അതിനാൽ ഒരു നിർദ്ദിഷ്ട സാഹചര്യം ഒരു ദുരന്തം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതോ ആയ ഒരു കാര്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്കറിയാവുന്നതിനായി ഈ നിർദ്ദിഷ്ട വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ് അത് അതിനാൽ പ്രവചനവും നിർദ്ദേശവും തമ്മിൽ ഒരു ബന്ധമുണ്ട് പ്രസ്ക്രിപ്റ്റീവ് പ്രവചനാതീതമായതിനേക്കാൾ കൂടുതലാണ് അതിനാൽ ഈ വിവരണാത്മക പ്രവചനാത്മക കുറിപ്പടി എന്നിവയ്ക്കും ഓരോന്നിനും വ്യത്യസ്ത ഉപകരണങ്ങളും സാങ്കേതികതകളും ഉപയോഗിക്കേണ്ടതുണ്ട് വിവരണാത്മക വിശകലന ജോടി അടിസ്ഥാനപരമായി നമുക്ക് വിവരണാത്മക വിശകലനത്തിനായി വ്യത്യസ്ത സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിക്കാം പ്രവചനാത്മകമായ ഒരാൾക്ക് വ്യത്യസ്ത മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം കൂടാതെ മെഷീൻ ലേണിംഗ് സ്ഥിതിവിവരക്കണക്കുകളുടെയും മറ്റ് AI ടെക്നിക്കുകളുടെയും സംയോജനമാണ് കുറിപ്പടി അതിനാൽ ഒരു IIoT സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത തരം വിശകലനങ്ങളാണിവ അതിനാൽ ഒരു വ്യാവസായിക സാഹചര്യത്തിൽ അനലിറ്റിക്സ് നടപ്പിലാക്കുന്നതിൽ വ്യത്യസ്ത വെല്ലുവിളികൾ ഉണ്ട് പരാമർശിച്ചിരിക്കുന്ന ഈ വെല്ലുവിളികളിൽ ചിലത് ഇതാ ആദ്യത്തേത് ശരിയാണ് ഞാൻ ആരംഭിക്കും കൃത്യത വളരെ പ്രധാനമാണ് കൃത്യത വളരെ പ്രാധാന്യമുള്ള ഉയർന്ന വേഗതയിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചെയ്യുന്ന ഒരു ജോലിയുടെ കൃത്യത പ്രധാനമാണ് കൃത്യത എന്നിവ കണക്കിലെടുത്തില്ലെങ്കിൽ അത് മെഷീൻ തകരാറുകൾ പ്രോസസ്സ് പരാജയം അപകടങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം അതിനാൽ സുരക്ഷ കൃത്യതയും സ്ഥാനവും കൃത്യതയും കണക്കിലെടുത്തില്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ചിത്രത്തിൽ വരും അതിനാൽ നിങ്ങൾ നടപ്പിലാക്കുന്ന നിങ്ങളുടെ വിശകലനങ്ങൾ യഥാർഥത്തിൽ ആവശ്യമുള്ളതും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അനുയോജ്യമായതും അടിസ്ഥാനമാക്കി കാര്യങ്ങൾ ശരിയായി ചെയ്യേണ്ടതുണ്ട് കാര്യകാരണ ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് കാര്യകാരണ ബന്ധങ്ങൾ കാരണ പ്രഭാവം മനസ്സിലാക്കൽ അതിനാൽ കാരണം പ്രഭാവത്തെക്കുറിച്ചും വ്യത്യസ്ത സംഭവങ്ങൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കാര്യമായ ധാരണ ഇല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് കാരണമാകുന്നത് എന്താണ് അത് വിശകലനം ശരിയായി നടപ്പിലാക്കാൻ നിങ്ങളെ സഹായിക്കില്ല കുറഞ്ഞ മാനുഷിക ഇടപെടലോടെ എല്ലാം സ്വയമേവ തുടരണം അനലിറ്റിക്സും മനുഷ്യന്റെ ഇടപെടലില്ലാതെ നടപ്പിലാക്കുന്ന വ്യത്യസ്ത പ്രക്രിയകളും സിസ്റ്റത്തിന്റെ വിവിധ ഭാഗങ്ങളെ നിയന്ത്രിക്കാനും ആശയവിനിമയം നടത്താനും കഴിയണം വ്യാവസായിക യന്ത്രങ്ങൾ IIoT സാഹചര്യങ്ങൾ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ എന്നിവയിൽ സ്ട്രീമിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ തുടർച്ചയായി പ്രവർത്തിക്കുന്ന മെഷീനുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തുടർച്ചയായ പ്രവർത്തനങ്ങൾ കാരണം ധാരാളം ഡാറ്റ ശേഖരിക്കുന്നു ആ ഡാറ്റ സ്ട്രീം ചെയ്യുന്നു അത് ആ ഡാറ്റ തുടർച്ചയായി ചാനലിലേക്ക് അയയ്ക്കുകയും വലിയ സ്ട്രീമുകളിൽ വരുന്ന അത്തരം ഡാറ്റ തത്സമയം വലിയ സ്ട്രീമുകൾ തുടർച്ചയായി വിശകലനം ചെയ്യുകയും വേണം വളരെ നിസ്സാരമായ ജോലി സെമാന്റിക്സും ഡാറ്റയിൽ നിന്ന് കൂടുതൽ ഉൾക്കാഴ്ചകളും നേടുകയും ഒരു ഘടകത്തിന്റെ ഈ അർത്ഥങ്ങളെ മറ്റൊന്നുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുകയും അവയുടെ പരസ്പര ബന്ധങ്ങളും വളരെ പ്രധാനമാണ് കൂടാതെ വിശകലനത്തിനായി ഉപയോഗിക്കേണ്ട ഒരു അൽഗോരിതം നിർദ്ദേശിക്കുമ്പോൾ അത് പരിഗണിക്കുകയും വേണം വിതരണ സ്വഭാവം വളരെ പ്രധാനമാണ് ഇക്കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് കേന്ദ്രീകൃത സംവിധാനങ്ങളെയല്ല മറിച്ച് ഒരു ഭാഗത്തും ചില ഭാഗങ്ങളുള്ള മറ്റ് ഭാഗങ്ങളും മറ്റൊരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്ത് സ്ഥിതിചെയ്യുന്ന ജിയോ വിതരണം ചെയ്യുന്ന വിതരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് അതിനാൽ നിങ്ങൾക്ക് അനലിറ്റിക്സ് വിതരണം ചെയ്യേണ്ടതുണ്ട് ജിയോ ലൊക്കേഷനുകളിലെ വ്യത്യാസങ്ങളും അവയുടെ അനുബന്ധ നിർവ്വഹണങ്ങളും ഒരേ സിസ്റ്റത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിലോ കണക്കിലെടുക്കുന്ന അനലിറ്റിക്സ് എന്നാൽ ഒരുമിച്ച് സമന്വയിപ്പിച്ച് പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ വിതരണം ചെയ്ത വിശകലനങ്ങളും വളരെ പ്രധാനമാണ് കാരണം വിശകലനത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് സ്ഥിതിചെയ്യുന്ന ഘടകത്തോട് അടുത്ത് ചെയ്യേണ്ടിവരും മറ്റ് ചില ഭാഗങ്ങൾ മറ്റൊരു സ്ഥലത്ത് സ്ഥിതിചെയ്യുന്ന ഘടകത്തോട് അടുക്കുകയും ചില വിശകലനങ്ങൾ സമന്വയത്തിൽ നടത്തുകയും വേണം ഒരുമിച്ച് വലിയ ചിത്രം എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ ഉള്ള ഒരു പൊതു ആശയം ഉണ്ടാക്കുകയും ആവശ്യമെങ്കിൽ ചില കുറിപ്പടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു വ്യവസായ സാഹചര്യങ്ങളിൽ സുരക്ഷ വളരെ പ്രധാനമാണ് എനിക്ക് ഇത് കൂടുതൽ ഉന്നിപ്പറയാനാവില്ല സുരക്ഷാ അനലിറ്റിക്സ് വളരെ പ്രധാനമാണ് കാരണം വ്യത്യസ്ത ദുരന്തങ്ങൾ മെഷീൻ തകരാറുകളിൽ നിന്ന് സുരക്ഷിതമായ അടിസ്ഥാന എർഗണോമിക്സ് സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റർ ചില തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ അത് സംഭവിക്കാം അടിസ്ഥാനപരമായി ചില ദുരന്തങ്ങൾ ഉണ്ടാകാം അതിനാൽ ആളുകൾ മരിക്കാം ശരിയാണ് അതിനാൽ ചില തെറ്റുകളുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ ഇവയെല്ലാം സ്വയംഭരണ സംവിധാനങ്ങളിൽ സംഭവിക്കാം അവിടെ ചില അൽഗോരിതങ്ങൾ കാരണം കാര്യങ്ങൾ സംഭവിക്കുന്നു അവയ്ക്ക് പിന്നിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യതയില്ലെങ്കിൽ അടിസ്ഥാനപരമായി അത് അപകടങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില പരാജയങ്ങളിലേക്ക് നയിച്ചേക്കാം വ്യാവസായിക ക്രമീകരണങ്ങളിൽ അതിനാൽ എർഗണോമിക്സ് സുരക്ഷ മുതൽ അപകടങ്ങൾ മുതലായവ വരെ സുരക്ഷ മിക്ക വ്യവസായങ്ങളിലും പ്രത്യേകിച്ച് വ്യവസായ 4 0 ൽ വളരെ പ്രധാനമാണ് അതിനാൽ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ് അതിനാൽ സുരക്ഷാ വിശ്വാസ്യതയും മറ്റും വളരെ പ്രധാനമാണ് അതിനാൽ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഗണിക്കുന്ന വിശകലനങ്ങൾ വളരെ പ്രധാനമാണ് സമയക്രമം വളരെ പ്രധാനമാണ് കാരണം ഒരു പ്രത്യേക പ്രക്രിയ നിർവ്വഹിക്കുന്നതിൽ കാലതാമസം വരുത്തുകയും ആ പ്രത്യേക ദിനചര്യയിൽ നിന്ന് വരുന്ന നിർദ്ദിഷ്ട സിഗ്നൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ കീഴിലുള്ള അൽഗോരിതം ഒരു മില്ലി സെക്കൻഡ് പോലും വൈകുകയും അത് ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അതിനാൽ സമയവും സന്ദർഭവും വളരെ പ്രധാനമാണ് പ്രവർത്തനങ്ങൾ നടക്കുന്ന വിവിധ സന്ദർഭങ്ങൾ കണക്കിലെടുക്കുകയും സമഗ്രമായി വിശകലനം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭം വളരെ പ്രധാനമാണ് അതിനാൽ IIoT സാഹചര്യങ്ങൾക്കായുള്ള വിശകലനങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വെല്ലുവിളികൾ ഇവയാണ് അതിനാൽ ഞങ്ങൾക്ക് IIoT അനലിറ്റിക്സ് ഉണ്ട് ഈ ആശയം ഇപ്പോൾ ആളുകൾ ഡാറ്റ സയൻസിനെക്കുറിച്ച് സംസാരിക്കുന്നു ശരിയാണ് അതിനാൽ അടിസ്ഥാനപരമായി ഡാറ്റ സയൻസ് ഒന്നുമല്ല പക്ഷേ ഡാറ്റയിൽ നിന്ന് അർത്ഥമോ ഉൾക്കാഴ്ചയോ നേടാൻ ശ്രമിക്കുന്നു വളരെ വ്യക്തമല്ലാത്ത ഉൾക്കാഴ്ചകളും മറ്റും അതിനാൽ ഡാറ്റയിൽ നിന്ന് അർത്ഥങ്ങൾ നേടാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ ഇത് ഒരു പുതിയ പ്രവണതയാണ് അതിനാൽ വലിയ ഡാറ്റ വിശകലനം വളരെ ജനപ്രിയമാണ് വലിയ അളവിലുള്ള ഡാറ്റയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയ ഡാറ്റ ഡാറ്റയുടെ തത്സമയ സ്ട്രീമുകളിൽ ഉയർന്ന വേഗതയിൽ വരുന്നു ഉയർന്ന വ്യതിയാനവും സത്യസന്ധതയും ഉള്ള ഡാറ്റ വൈവിധ്യമാർന്ന ഡാറ്റ തുടങ്ങിയവ അതിനാൽ ഇവയെല്ലാം വലിയ ഡാറ്റയുടെ വ്യത്യസ്ത ഗുണങ്ങളാണ് അതിനാൽ വലിയ ഡാറ്റാ അനലിറ്റിക്സ് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഈ തരത്തിലുള്ള ഡാറ്റ ഘടനയില്ലാത്ത ഡാറ്റ ബന്ധപ്പെട്ട പട്ടികകളിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഡാറ്റ എന്നിവയുടെ ഒരു യാഥാർത്ഥ്യവും വിശകലനവുമാണ് അതിനാൽ ഡാറ്റയിൽ നിന്ന് അർത്ഥം എക്സ്ട്രാക്റ്റുചെയ്യുന്നതിന് നിങ്ങൾക്ക് അനുബന്ധ രീതികൾ ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ആ സാധനങ്ങൾ ലഭ്യമല്ല അതിനാൽ വ്യാവസായിക ക്രമീകരണങ്ങളിൽ യാഥാർത്ഥ്യമാകുന്ന അത്തരം സ്വഭാവസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതും ഘടനാപരമല്ലാത്തതുമായ ഒരു ഡാറ്റയുടെ അഭാവത്തിൽ ഡാറ്റയിൽ നിന്ന് എത്രയും വേഗം ഉൾക്കാഴ്ചകളോ അർത്ഥമോ ലഭിക്കുന്നതിന് നിങ്ങൾ എങ്ങനെ ഡാറ്റ വിശകലനം ചെയ്യും അതായത് ഈ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന സമയത്തോട് കഴിയുന്നത്ര അടുത്ത് മെഷീൻ ലേണിംഗ് തുടങ്ങിയ AI വിദ്യകൾ വളരെ പ്രചാരത്തിലുണ്ട് അതിനാൽ ഈ ടെക്നിക്കുകൾ ഒന്നിച്ച് ഡാറ്റയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ നേടാൻ സഹായിക്കും അതിനാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മെഷീനുകൾ ഡാറ്റ നയിക്കുന്ന സിസ്റ്റങ്ങൾ ഡാറ്റ നയിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് സിസ്റ്റങ്ങൾ ഡാറ്റ ഡ്രൈവഡ് മാർഗങ്ങൾ ആണ് നിങ്ങൾക്ക് ധാരാളം ഡാറ്റയുണ്ട് ഡാറ്റ നിയന്ത്രിക്കുന്നു വ്യവസായ 4 0 ലോകത്ത് ഡാറ്റ വളരെ പ്രാധാന്യമർഹിക്കുന്നു നിർമ്മാണ പ്രക്രിയകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബിസിനസ്സ് പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളുടെ ഗതിയെക്കുറിച്ച് ഡാറ്റ തന്നെ നയിക്കുന്നത് വളരെ പ്രധാനമാണ് അതിനാൽ നമുക്ക് മെഷീൻ പഠനത്തെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഞാൻ മെഷീൻ ലേണിംഗിനെക്കുറിച്ചും ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ചും സംസാരിച്ചു അതിനാൽ മെഷീൻ ലേണിംഗ് അടിസ്ഥാനപരമായി ഇത് AI യുടെ ഒരു മേഖലയാണ് ഈ മെഷീൻ ലേണിംഗിൽ അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുന്നത് മെഷീൻ ലേണിംഗിൽ നമ്മൾ സംസാരിക്കുന്നത് ചിലതരം ബുദ്ധിശക്തിയാണ് അതിനാൽ വ്യത്യസ്ത മെഷീനുകളിൽ നിന്ന് വരുന്നതെന്താണെന്ന് നോക്കിയാൽ ഡാറ്റ ശേഖരണത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത് സാധാരണയായി ഈ വ്യത്യസ്ത മെഷീനുകളിലെ സെൻസറുകൾ മെഷീൻ ലേണിംഗിൽ വളരെ പ്രാധാന്യമുള്ള ഫീച്ചർ എക്സ്ട്രാക്ഷൻ എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ രീതികൾ അടിസ്ഥാനപരമായി അവർ ചെയ്യുന്നത് അസറ്റിന്റെ ഭൌതിക അവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് അസംസ്കൃത ഡാറ്റ മാറ്റുക എന്നതാണ് അതിനാൽ ഫീച്ചർ എക്സ്ട്രാക്ഷനുകൾ നടത്തുന്നു കൂടാതെ ഫീച്ചർ എക്സ്ട്രാക്ഷൻ തന്നെ വളരെയധികം ജോലി ആവശ്യമുള്ള ഒരു ജോലിയാണ് അതിനാൽ സവിശേഷത എക്സ്ട്രാക്ഷനായി വ്യത്യസ്ത അൽഗോരിതം ലഭ്യമാണ് അതിനാൽ ഈ സവിശേഷതകൾ എക്സ്ട്രാക്റ്റുചെയ്തുകഴിഞ്ഞാൽ ഈ മെഷീനുകളുടെയും അവയുടെ പ്രവർത്തനങ്ങളുടെയും യഥാർത്ഥ അവസ്ഥയുമായി സാമ്യമുള്ള സവിശേഷതകളാണ് ഇവ അതിനാൽ മെഷീൻ ലേണിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഏത് സവിശേഷത എക്സ്ട്രാക്ഷൻ പിന്തുടരുന്നു അതിനാൽ മെഷീൻ ലേണിംഗ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ വളരെ പ്രധാനമാണ് അതിനാൽ ഇനിപ്പറയുന്ന സവിശേഷത എക്സ്ട്രാക്ഷൻ ഈ മോഡൽ സൃഷ്ടിയും മോഡൽ മൂല്യനിർണ്ണയവും ഉണ്ട് അതിനാൽ മോഡലുകൾ സൃഷ്ടിക്കേണ്ടതുണ്ട് തുടർന്ന് ഈ മോഡലുകൾ സാധൂകരിക്കുകയും അതിനുശേഷം ഈ മോഡലുകൾ കൂടുതൽ ഉപയോഗത്തിനായി വിന്യസിക്കുകയും വേണം അതിനാൽ രണ്ട് തരം മെഷീൻ ലേണിംഗ് ഉണ്ട് മെഷീൻ ലേണിംഗ് എന്നാൽ നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ ഈ ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ നിങ്ങൾ ചില കാര്യങ്ങൾ ചില പ്രവർത്തനങ്ങൾ ഫീച്ചർ എക്സ്ട്രാക്ഷൻ മോഡൽ ക്രിയേഷൻ തുടങ്ങിയവ ചെയ്യുന്നു അതിൽ നിന്ന് വിന്യസിച്ച മോഡലുകളിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഭാവി അതിനാൽ എല്ലാ ക്രോസ് തലങ്ങളിലും മെഷീൻ ലേണിംഗ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഈ മെഷീൻ ലേണിംഗ് രണ്ട് തരത്തിലുള്ള മേൽനോട്ടത്തിലോ ആകാം ചുരുക്കത്തിൽ സൂപ്പർവൈസ് ചെയ്ത മെഷീൻ ലേണിംഗിന്റെ സൂപ്പർവൈസുചെയ്ത അൽഗോരിതങ്ങൾ വ്യത്യസ്ത സെറ്റുകളുടെ പരിശീലന ഡാറ്റ ഇതിനകം ലഭ്യമാണെന്നും നിങ്ങളുടെ മോഡലുകൾ കൊണ്ടുവരാൻ നിങ്ങൾ ആ പഴയ ചരിത്ര പരിശീലന ഡാറ്റ ഉപയോഗിക്കുന്നുവെന്നും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും അതിനാൽ ഈ പരിശീലന ഡാറ്റയെ അടിസ്ഥാനമാക്കി മോഡലുകൾ സൃഷ്ടിക്കപ്പെടും തുടർന്ന് ഈ മോഡലുകൾ മറ്റ് സെറ്റ് ഡാറ്റ ഉപയോഗിച്ച് സാധൂകരിക്കാനും കഴിയും അതിനാൽ മേൽനോട്ടത്തിലുള്ള പഠനം അടിസ്ഥാനപരമായി പരിശീലന ഡാറ്റ ഉപയോഗിക്കുന്നു പരിശീലന ഡാറ്റ ലഭ്യമല്ലെങ്കിൽ പരിശീലന ഡാറ്റയുടെ അഭാവത്തിൽ ഫീച്ചർ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മേൽനോട്ടമില്ലാത്ത മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്രദമാണ് അതിനാൽ മേൽനോട്ടമില്ലാത്ത രീതികളിൽ ലേബൽ ഡാറ്റ ഇല്ല ഈ മേൽനോട്ടമില്ലാത്ത പഠന രീതികൾ അടിസ്ഥാനപരമായി ഇൻപുട്ട് ഡാറ്റയിലെ ഒരു ഘടന സ്വന്തമായി വേർതിരിച്ചെടുക്കുന്നു അതിനാൽ മേൽനോട്ടം വഹിക്കുന്നതും മേൽനോട്ടം വഹിക്കാത്തതുമായ പഠന രീതികൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് മറ്റൊരു പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കും എന്നാൽ ഇപ്പോൾ നമുക്ക് ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ച് സംസാരിക്കാം അത് ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെയധികം സംസാരിക്കുന്ന മറ്റൊരു കാര്യമാണ് അതിനാൽ ആളുകൾ സംസാരിക്കുന്നത് മെഷീൻ ലേണിംഗിനെക്കുറിച്ചും വ്യാവസായിക സാഹചര്യങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ചും ആണ് ഇപ്പോൾ ആഴത്തിലുള്ള പഠനം മെഷീൻ ലേണിംഗ് പോലെയാണ് ഇത് മറ്റൊരു അച്ചടക്കമാണ് ആഴത്തിലുള്ള പഠനം നമുക്ക് മെഷീൻ ലേണിംഗിന്റെ മറ്റൊരു വഴിയാണെന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ആഴത്തിലുള്ള പഠനത്തിൽ മെഷീൻ ലേണിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഫീച്ചർ എക്സ്ട്രാക്ഷൻ മുതലായവ ചെയ്തു ആഴത്തിലുള്ള പഠനത്തിൽ നിങ്ങൾക്ക് ആ വ്യവസ്ഥയില്ല അതിനാൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് വശങ്ങളൊന്നും നിലവിലില്ല അതിനാൽ നിങ്ങൾ ഈ മൊത്തത്തിലുള്ള ബ്ലോക്ക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ അതിനാൽ ഞങ്ങൾക്ക് ഡാറ്റ ശേഖരണം മോഡൽ സൃഷ്ടിക്കൽ മോഡൽ മൂല്യനിർണ്ണയം വിന്യാസം എന്നിവയുണ്ട് അതിനാൽ ഇവിടെ ഇല്ലാത്തത് മെഷീൻ ലേണിംഗിൽ നിന്ന് വ്യത്യസ്തമാണ് മെഷീൻ ലേണിംഗിൽ ഉണ്ടായിരുന്ന ഈ സവിശേഷത എക്സ്ട്രാക്ഷൻ ആഴത്തിലുള്ള പഠനത്തിൽ ഇല്ല അതിനാൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് ഇല്ല അതിനാൽ അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് സെൻസറുകളിൽ നിന്നുള്ള അസംസ്കൃത ഡാറ്റ ഈ ആഴത്തിലുള്ള പഠന അൽഗോരിതങ്ങളിൽ ഉൾപ്പെടുത്തുകയും അതിൽ നിന്ന് വ്യത്യസ്ത സവിശേഷതകൾ സ്വയമേവ പഠിക്കുകയും ചെയ്യും മെഷീൻ ലേണിംഗിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന സവിശേഷതകൾ സ്വമേധയാ വ്യക്തമാക്കാതെ തന്നെ അതിനാൽ വ്യത്യസ്ത സവിശേഷതകൾ സ്വമേധയാ വ്യക്തമാക്കാതെ സ്വയം പഠിക്കുന്നത് ഇത് അടിസ്ഥാനപരമായി ആഴത്തിലുള്ള പഠനമാണ് അതിനാൽ ഈ ആഴത്തിലുള്ള പഠന രീതികളിൽ ഭൂരിഭാഗവും പരമ്പരാഗത ന്യൂറൽ നെറ്റ്വർക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ പോലുള്ള രീതികൾ വളരെ ജനപ്രിയമാണ് കൂടാതെ ഈ ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഘടനയും മറ്റും കാരണം സമാനമായ വ്യത്യസ്ത രീതികൾ ഈ വ്യത്യസ്ത കണക്കുകൂട്ടലിന്റെ വലിയ അളവിലുള്ള കണക്കുകൂട്ടൽ ശക്തി ആവശ്യമാണ് ഈ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ അതിനാൽ ആഴത്തിലുള്ള പഠന അൽഗോരിതങ്ങൾക്ക് GPU സെർവറുകളും മറ്റും ആവശ്യമാണ് അതിനാൽ ഈ ആഴത്തിലുള്ള പഠന രീതികൾ വളരെ ജനപ്രിയമായിത്തീരുന്നു കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വിലകുറഞ്ഞതും കൂടുതൽ കാര്യക്ഷമവുമായ നൂതന കമ്പ്യൂട്ടിംഗ് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നു അവിടെയാണ് ആഴത്തിലുള്ള പഠനം വളരെ പ്രചാരത്തിലുണ്ട് വിശകലനത്തിനുള്ള സമയപരിധിയുടെ അടിസ്ഥാനത്തിൽ അനലിറ്റിക്സ് മിനി സെക്കൻഡിൽ മിനിറ്റുകളിൽ മണിക്കൂറുകളിൽ നടത്തേണ്ടിവരും മില്ലിസെക്കൻഡുകൾ അടിസ്ഥാനപരമായി അടിസ്ഥാന വിശകലനങ്ങൾ മിനിറ്റുകളിൽ ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ പ്രവചന വിശകലനവുമാണ് ബേസ്ലൈൻ അനലിറ്റിക്സ് അടിസ്ഥാനപരമായി ഒരു അസറ്റിന്റെ ശേഷിക്കുന്ന ഉപയോഗപ്രദമായ ജീവിതത്തെക്കുറിച്ച് അറിയിക്കുന്നു അതിനാൽ ഇവ വ്യത്യസ്ത തരം വിശകലനങ്ങളും അവയുടെ അനുബന്ധ പ്രവർത്തന നൈപുണ്യങ്ങളുമാണ് വിന്യാസത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിശകലനത്തിന്റെ വിന്യാസത്തിൽ സാധാരണയായി വ്യത്യസ്ത ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഒരു പ്രത്യേക മോഡലിനെ പരിശീലിപ്പിക്കേണ്ട ചില പ്രവചന വിശകലനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു മോഡലിനെ പരിശീലിപ്പിക്കുകയും മുമ്പ് കാണാത്ത ചില ഡാറ്റയിൽ ആ പ്രത്യേക മോഡൽ പരിശോധിച്ച് സാധൂകരിക്കുകയും അതിനുശേഷം തത്സമയം സ്ട്രീം ചെയ്യപ്പെടുന്ന ഒരു യഥാർത്ഥ ഡാറ്റ സെറ്റിൽ പ്രവചിക്കാൻ ആ മാതൃക വിന്യസിക്കുകയും വേണം അതിനാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ബേസ്ലൈൻ അനലിറ്റിക്സ് ഉണ്ട് ഈ വ്യത്യസ്ത മെഷീനുകളിൽ നിന്ന് ഈ സെൻസർ ഡിവൈസുകൾ ഈ ബേസ്ലൈൻ അനലിറ്റിക്സ് ചെയ്യും അത് വളരെ വേഗത്തിൽ ചെയ്യപ്പെടും തുടർന്ന് ഡാറ്റ ഗേറ്റ്വേ ഉപകരണങ്ങൾ അല്ലെങ്കിൽ എഡ്ജ് അല്ലെങ്കിൽ ഫോഗ് ഉപകരണങ്ങൾ എന്നിവ അടിസ്ഥാനപരമായി നെറ്റ്വർക്ക് ഉപകരണങ്ങളാണ് ഈ യന്ത്രസാമഗ്രികൾക്ക് സമീപം ചില അടിസ്ഥാന വിശകലനങ്ങളും ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സുകളുമായുള്ള സംയോജനവും നടത്തപ്പെടും വീണ്ടും ഈ ഡാറ്റ കൂടുതൽ സമാഹരിക്കാനും ക്ലൌഡിലേക്ക് അയയ്ക്കാനും ഈ ക്ലൌഡിൽ അടിസ്ഥാനപരമായി ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ് പ്രൊഗ്നോസ്റ്റിക് അനലിറ്റിക്സ് എന്നിവ നടത്തപ്പെടും അതിനാൽ സ്രോതസ്സിലെ ബേസ്ലൈൻ അനലിറ്റിക്സ് മുതൽ അരികിലുള്ള ബേസ്ലൈനിന്റെയും ഡയഗ്നോസ്റ്റിക്സിന്റെയും സംയോജനം മുതൽ ക്ലൌഡിലെ ഡയഗ്നോസ്റ്റിക് പ്രൊഗ്നോസ്റ്റിക് അനലിറ്റിക്സ് വരെ നമുക്ക് അനലിറ്റിക്സ് പ്രവർത്തനങ്ങളുടെ ഈ വ്യത്യസ്ത ഘട്ടങ്ങളുണ്ട് അതിനാൽ വിശകലനം തത്സമയം ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് തത്സമയം ഡാറ്റ സ്ട്രീമിംഗ് ഡാറ്റ അയയ്ക്കുന്ന യന്ത്രങ്ങളുണ്ട് അതിനാൽ ഡാറ്റയുടെ സ്ട്രീമുകൾ പ്രോസസ്സ് ചെയ്യേണ്ടിവരും കഴിയുന്നതും വേഗം ഡാറ്റയുടെ ഉറവിടത്തിലേക്ക് കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിവരും കാരണം ആ ഉപയോഗപ്രദമായ അലേർട്ടുകൾ അയയ്ക്കാൻ കഴിയും ഉദാഹരണത്തിന് ഒരു പ്രത്യേക യന്ത്രം കടന്നുപോകുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക താപനില പരിധിയിലേക്ക് അടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രവർത്തനത്തിലുള്ള ഒരു പ്രത്യേക മെഷീനിൽ ഒരു അലർട്ട് അയയ്ക്കാം ടയർ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അറിയിപ്പുകൾ ഉദാഹരണത്തിന് ഒരു സ്മാർട്ട് കാറിൽ ഉടൻ അയയ്ക്കാം അതിനാൽ ചില അടിസ്ഥാന തത്സമയ വിശകലനങ്ങൾ നടത്താൻ കഴിയും കൂടാതെ വ്യത്യസ്ത സ്ട്രീം പ്രോസസ്സിംഗിലൂടെയും മറ്റും ഈ അലേർട്ടുകൾ തൽക്ഷണം അയയ്ക്കുന്നതും വളരെ പ്രധാനമാണ് അതിനാൽ അത് എങ്ങനെ ചെയ്യാം കാരണം വ്യത്യസ്ത പ്രക്രിയകൾ നടപ്പിലാക്കാൻ കുറച്ച് സമയമെടുക്കും അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കൂട്ടം നിയമങ്ങൾ തത്സമയം പൊരുത്തപ്പെടുത്തുന്നത് പോലുള്ള വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കൂട്ടം നിയമങ്ങളുണ്ട് കൂടാതെ ചില തരത്തിലുള്ള പൊരുത്തപ്പെടുത്തലുകൾ നടത്താനും കഴിയും മെഷീൻ ലേണിംഗിലെ ടെംപ്ലേറ്റ് പൊരുത്തപ്പെടുത്തൽ പോലുള്ള സാങ്കേതിക വിദ്യകൾ അത് ചെയ്യാൻ ഉപയോഗിക്കാം അതിനാൽ ഈ ടെംപ്ലേറ്റ് പൊരുത്തപ്പെടുത്തൽ എന്നിവ വിശകലനത്തിൽ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും തത്സമയം വരുന്ന ഡാറ്റ സ്ട്രീമുകൾ തത്സമയം പ്രോസസ്സ് ചെയ്യേണ്ടതും മറ്റും അതിനാൽ ഈ പ്രത്യേക ഉദ്ദേശ്യത്തിനായി അപ്പാച്ചെ സ്റ്റോം മുതലായ സങ്കീർണ്ണമായ ഇവന്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചേക്കാം ബാച്ച് പ്രോസസ്സിംഗും ഒരു ആവശ്യമായിരിക്കാം ബാച്ച് പ്രോസസ്സിംഗ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ധാരാളം ഡാറ്റ ലഭിക്കുന്നതിനെക്കുറിച്ചും ആ ഡാറ്റ നിർവ്വഹിക്കുന്നതിനെക്കുറിച്ചും ബാച്ചുകളിലെ ദീർഘകാല സ്ഥിതിവിവരക്കണക്കുകൾക്കായി ആ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരു മാസത്തെ ഒരു മുറിയുടെ ശരാശരി താപനില അത് ഒരുതരം ബാച്ച് പ്രോസസ്സിംഗ് ആണ് അത് നിങ്ങൾക്ക് ദീർഘകാല സ്ഥിതിവിവരക്കണക്കുകളോ കഴിഞ്ഞ വർഷത്തെ ഒരു വീടിന്റെ വൈദ്യുതി ഉപയോഗമോ നൽകും അതിനാൽ ഇത് വളരെ പ്രധാനമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് അനലിറ്റിക്സ് വളരെ പ്രധാനമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത മെഷീനുകളും അവയുടെ ഘടകങ്ങളും എല്ലാം ജിയോ വിതരണം ചെയ്യുന്ന വ്യാവസായിക സാഹചര്യങ്ങളെക്കുറിച്ചും ചിലതരം ഡാറ്റ സമാഹരണവും ബുദ്ധിയും ഈ വ്യത്യസ്ത ഘടകങ്ങളോടും അവയുടെ ഉറവിടങ്ങളോടും കഴിയുന്നത്ര അടുത്ത് നിർവഹിക്കേണ്ടതുമാണ് ഉത്ഭവം അതിനാൽ അപ്പാച്ചെ ഹഡൂപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം മോഡൽ ബിൽഡിംഗ് മോഡൽ ബിൽഡിംഗിനായി ഫീച്ചർ എക്സ്ട്രാക്ഷൻ മോഡൽ ബിൽഡിംഗിന് ശേഷം മെഷീൻ ലേണിംഗിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനാൽ മോഡൽ ബിൽഡിംഗിന് വ്യത്യസ്തമായ വ്യത്യസ്ത രീതികൾ ഉണ്ട് ഉദാഹരണത്തിന് അപാകത കണ്ടെത്തുന്നതിന് GMM മോഡലുകൾ ഉണ്ട് ഗാസിയൻ മിശ്രിത മോഡലുകൾ വർഗ്ഗീകരണത്തിന് SVM അല്ലെങ്കിൽ സപ്പോർട്ട് വെക്ടർ മെഷീനുകൾ ഉണ്ട് വ്യതിചലനത്തിനായി ബയേഷ്യൻ റിഗ്രഷൻ ടെക്നിക്കുകൾ ഉണ്ട് അതിനാൽ അടിസ്ഥാനപരമായി മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ നടപ്പിലാക്കാം ആ അൽഗോരിതങ്ങൾ ഡാറ്റാ സ്റ്റോറിൽ നിന്ന് വരുന്ന ഡാറ്റയിൽ പ്രയോഗിക്കാൻ കഴിയും തുടർന്ന് ഈ കാൻഡിഡേറ്റ് മോഡലുകൾ അടിസ്ഥാനപരമായി നിർമ്മിക്കുകയും തുടർന്ന് അവരുടെ പ്രവർത്തനരീതി മെച്ചപ്പെടുത്തുന്നതിന് ഈ വ്യത്യസ്ത പഠന അൽഗോരിതങ്ങൾക്ക് തിരികെ നൽകുകയും ചെയ്യും IIoT അനലിറ്റിക്സിലെ വ്യത്യസ്ത മൂല്യ ഡ്രൈവറുകൾ ഇതുപോലെയാണ് പുതിയ മൂല്യ സ്ട്രീമുകൾ പുതിയ വരുമാന സ്രോതസ്സുകൾ എന്നിവ നേടുന്നതിന് ഇത് ആവശ്യമാണ് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ അപ്ഗ്രേഡുചെയ്യുന്നതിന് അനലിറ്റിക്സ് ഉപയോഗപ്രദമാകും ബിസിനസ് മോഡൽ അനലിറ്റിക്സ് മാറ്റുന്നത് ഉപയോഗപ്രദമാകും പുതിയ ബിസിനസ് മോഡലുകൾ അനലിറ്റിക്സ് സൃഷ്ടിക്കുന്നതിന് ഉപയോഗപ്രദമാകും അതിനാൽ വ്യത്യസ്ത ബിസിനസ്സിലും വ്യാവസായിക ക്രമീകരണങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇവയെല്ലാം വിലപ്പെട്ടതാണ് ചെലവ് കുറയ്ക്കുന്നതിനും ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള പ്രക്രിയ ഒപ്റ്റിമൈസേഷനും എന്നിവ നമുക്ക് നടപ്പിലാക്കാൻ ആവശ്യമായ വ്യത്യസ്ത വിശകലന ടെക്നിക്കുകൾ ആവശ്യമാണ് മൂല്യ ശൃംഖലയിലുടനീളമുള്ള വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ ഉപയോഗ സവിശേഷതകൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ R D വിശകലനങ്ങൾ ഉപയോഗപ്രദമാണ് പിന്നെ ഈ വിശകലനത്തിൽ നിന്ന് നിർമ്മിച്ച ഉൽപ്പന്നത്തിന്റെ അടുത്ത ചക്രത്തിലേക്ക് ആ ഉൾക്കാഴ്ചകൾ സൃഷ്ടിച്ച ബുദ്ധിശക്തിയുടെ ഫീഡ്ബാക്ക് അതിനാൽ ആർ ഡി എന്നിവയ്ക്കും വിശകലനം ഉപയോഗപ്രദമാണ് നിർമ്മാണത്തിനും പ്രവർത്തനങ്ങൾക്കുമായി പ്രവചനപരമായ പരിപാലനം വ്യാവസായിക പ്രക്രിയകൾക്കുള്ള തീരുമാന പിന്തുണ സംവിധാനങ്ങൾ നിലവിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റയെ അടിസ്ഥാനമാക്കി മെഷീൻ പാരാമീറ്ററുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് IIoT അനലിറ്റിക്സ് പ്രധാനമാണ് അതുപോലെ ലോജിസ്റ്റിക്സ് ഫ്ലീറ്റ് മാനേജ്മെന്റിലെ ഗതാഗതവും ഇന്ധനച്ചെലവും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും നിങ്ങൾ ഡാറ്റയിൽ നിന്ന് ബുദ്ധി കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ മാർക്കറ്റിംഗിനും വിൽപ്പനയ്ക്കുമായി നിങ്ങൾക്ക് വിശകലനം ആവശ്യമുള്ള ഉപയോക്തൃ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ ഉചിതമായ നവീകരണം നിർദ്ദേശിക്കാനും കഴിയും അതിനാൽ വിവിധ മേഖലകളിൽ വിശകലനം പ്രധാനമാണ് അതിനാൽ ഞാൻ വിമാനങ്ങളുടെ ഒരു ഉദാഹരണം എടുക്കട്ടെ അതിനാൽ വിമാനവാഹിനിക്കപ്പൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ വിമാനത്തിലും വ്യത്യസ്ത ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുകൾ അവർ ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന ഡാറ്റ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വ്യത്യസ്ത ഫ്ലൈറ്റുകളുടെ ഓരോ വ്യത്യസ്ത ഘടകങ്ങളിൽ നിന്നും റെക്കോർഡ് ചെയ്യാൻ പോകുന്നു ഈ ഡാറ്റ റെക്കോർഡറുകളിൽ സൂക്ഷിക്കാൻ പോകുന്നു ഈ ഡാറ്റ സെൻസർ ഡാറ്റയും വരാനിരിക്കുന്ന മറ്റ് വ്യത്യസ്ത ഡാറ്റകളുമാകാം എല്ലാം ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുകളിൽ സംഭരിക്കപ്പെടും ഇവ സംഭരിക്കാൻ പോകുന്നു എല്ലാ ഫ്ലൈറ്റ് ടെറാബൈറ്റുകളുടെയും അസംസ്കൃത ഡാറ്റയ്ക്കുള്ള ഈ ഡാറ്റ ഓരോ ഫ്ലൈറ്റിനും ശരിയായ ടെറാബൈറ്റുകൾക്കും നിർമ്മിക്കുന്നു അതിനാൽ വലിയ അളവിലുള്ള ഡാറ്റ സംഭരിച്ചിരിക്കുന്നു അതിനാൽ ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധി ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അർത്ഥം ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഡാറ്റ ഉപയോഗശൂന്യമാകും അതിനാൽ എന്താണ് ചെയ്യുന്നത് വിമാനം എഞ്ചിൻ മോഡലുകൾ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രവചിക്കുന്ന പ്രവർത്തന ഡാറ്റ എന്നിവയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അറിയാവുന്ന പ്രവചനാത്മക നിർദ്ദിഷ്ട അനലിറ്റിക്സ് പ്രവചനാത്മക അനലിറ്റിക്സ് പോലുള്ള വ്യത്യസ്ത തരം വിശകലനങ്ങൾ അതിനാൽ ചില അടിയന്തര ലാൻഡിംഗുകൾ എടുക്കുകയും ക്യാപ്റ്റൻ ഒരു പ്രത്യേക വിമാനത്തിന് ഒരു ദുരന്തം ഒഴിവാക്കുകയും ചെയ്യും അതിനാൽ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് അടിസ്ഥാനപരമായി തെറ്റായ കാരണങ്ങൾ കണ്ടീഷൻ ട്രെയിനുകൾ ഇന്ധനക്ഷമത മുതലായവ കൈകാര്യം ചെയ്യുന്നു അതിനാൽ പ്രവചനാത്മകവും നിർദ്ദിഷ്ടവുമായ വിശകലനങ്ങളും ബിസിനസ്സ് ഉൾക്കാഴ്ചകളും മറ്റും ലഭിക്കാൻ സഹായിക്കും അതിനാൽ ഇത് വളരെ പ്രധാനമാണ് അനലിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് ഇത് അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ അവസാനത്തോടെ ഞങ്ങൾ എത്തിച്ചേരുന്നു നിങ്ങൾക്ക് പരാമർശിക്കാവുന്ന ഈ പരാമർശങ്ങളിൽ ചിലത് ഇവയാണ് ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ വിശകലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു വിവിധ തരം വിശകലനങ്ങളുടെ വർഗ്ഗീകരണത്തെക്കുറിച്ചും വിശകലനത്തിനുള്ള വ്യത്യസ്ത രീതികളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു മെഷീൻ ലേണിംഗ് ആഴത്തിലുള്ള പഠന രീതികൾ എന്നിവയെക്കുറിച്ചും ലഭ്യമായതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു അനലിറ്റിക്സ് വളരെ ഉപകാരപ്രദമായ ഒരു ഉദാഹരണവും ഞങ്ങൾ കണ്ടു അതിനാൽ നിങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന റഫറൻസുകളാണിത് ഇതോടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു